ആവർത്തന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി കണക്കുകൂട്ടുന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച തുടരുന്നതിലൂടെ ഗ്രിഡ് പാത്തിന്റെ കംപ്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം നോക്കാം നമുക്ക് ഒരു ഗ്രിഡ് ഉണ്ട് ഒരു ചതുരാകൃതിയിലുള്ള ഗ്രിഡ് അവിടെ നമ്മൾ ഇടത് മൂലയിൽ നടക്കാൻ തുടങ്ങുന്നു കൂടാതെ നമുക്ക് മുകളിലേക്കോ വലത്തേക്കോ മാത്രമേ പോകാൻ കഴിയൂ എന്നതാണ് ചട്ടം അതിനാൽ ചുവടെ ആരംഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഒപ്പം മുകളിൽ വലത് കോണിൽ എത്താൻ ആഗ്രഹിക്കുന്നു നമുക്ക് കോർഡിനേറ്റുകളെ അക്കമിടാം അതിനാൽ ചുവടെ വലത് കോണിനെ നമുക്ക് 00 എന്ന് വിളിക്കാം ഈ പ്രത്യേക ഗ്രിഡിന് 5 നിരകളും 10 വരികളും ഉണ്ട് മുകളിൽ വലത് കോണിൽ 5 10 0 0 മുതൽ 5 10 വരെ എത്ര വ്യത്യസ്ത വഴികളിലൂടെ പോകുന്നു എന്നതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം വ്യത്യസ്ത വഴികൾ എന്നാൽ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് ഇവിടെ അത് ഒരു ഗ്രിഡ് പാത്ത് ആണ് ഈ നീല വര നമ്മളെ 0 0 നിന്ന് മുകളിലേക്ക് കൊണ്ടുപോകുന്നു തുടർന്ന് വലത് പിന്നെ മുകളിലേക്ക് തുടർന്ന് വലത് മുതലായവ അതിനാൽ ഈ ഗ്രിഡിനൊപ്പം അരികുകളുടെ ഒരു പ്രത്യേക ശ്രേണി ഇത് കണ്ടെത്തുന്നു ചുവടെ ഇടത് മൂലയിൽ നിന്ന് മുകളിൽ വലത്തേക്ക് നമുക്ക് തീർച്ചയായും വ്യത്യസ്തമായ ഒന്ന് തിരഞ്ഞെടുക്കാം ഈ പ്രത്യേകതയിൽ ചുവപ്പും നീലയും പൂർണ്ണമായും വിച്ഛേദിക്കുന്നു അവർ സമാന അരികുകളൊന്നും ഉപയോഗിക്കുന്നില്ല പക്ഷേ പൊതുവേ എനിക്ക് മറ്റ് പാതകളുമായി ഓവർലാപ്പ് ചെയ്യുന്ന പാതകളുണ്ടാകും അതിനാൽ ഈ മഞ്ഞ ഒന്ന് ഭാഗികമായി നീല നിറത്തിൽ ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നു തുടർന്ന് അത് ചുവപ്പ് നിറത്തിൽ ഓവർലാപ്പ് ചെയ്യുന്നു 0 0 മുതൽ m n വരെ എത്ര വ്യത്യസ്ത പാതകളുണ്ടെന്ന് അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഈ പ്രശ്നം യഥാർത്ഥത്തിൽ കോമ്പിനേറ്ററിക്സ് കൌഡിംഗിലെ വളരെ ക്ലാസിക്കൽ പ്രശ്നമായി മാറുന്നു അതിനാൽ ഇത് വിശകലനം ചെയ്യുന്നതിനുള്ള മാർഗ്ഗം താഴെ നിന്ന് മുകളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഒരു ഡൈമെൻഷനിൽ 0 മുതൽ 5 വരെ പോകണം മറ്റ് അളവുകളിൽ ഞാൻ 0 മുതൽ 10 വരെ പോകുക അതിനാൽ ഞാൻ 15 ഘട്ടങ്ങൾ ചെയ്യണം വേറെ വഴിയില്ല ഞാൻ 15 സെഗ്മെന്റുകൾ നടക്കണം പൊതുവേ ഞാൻ ചില m n ലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ m പ്ലസ് n സെഗ്മെന്റുകൾ നടക്കണം ഇപ്പോൾ എനിക്ക് ഈ 15 സെഗ്മെന്റുകളുണ്ടെങ്കിൽ ഞാൻ 510 പോകുന്നു അതിനർത്ഥം ഞാൻ 5 തവണ വലത്തേക്ക് പോകണം ഞാൻ 10 തവണ മുകളിലേക്ക് പോകണം ഇപ്പോൾ ഏത് ക്രമത്തിലാണ് ഞാൻ ഈ അവകാശങ്ങളും മുന്നേറ്റങ്ങളും ചെയ്യുന്നത് അതാണ് നിർണ്ണയിക്കുന്നത് ഞാൻ ഏത് പാത എടുക്കണം എന്നുള്ളത് എന്നാൽ ഓരോ പാതയിലും കൃത്യമായി 5 ശരിയായ നീക്കങ്ങളും കൃത്യമായി 10 മുകളിലേക്കുള്ള നീക്കങ്ങളും ഉണ്ടാകും അതിനാൽ 10 മുകളിലേക്കുള്ള നീക്കങ്ങളും 5 വലത് നീക്കങ്ങളും ഉണ്ടാകും ഇപ്പോൾ ഞാൻ ഇത് എടുക്കുകയും ഇത് മൊത്തത്തിലുള്ള ഒരു കാര്യമായി കരുതുകയും ചെയ്ത് ഞാൻ പറയുന്നു ഇത് എന്റെ ആദ്യ നീക്കമാണ് ഇത് എന്റെ രണ്ടാമത്തെ നീക്കമാണ് ഇത് എന്റെ മൂന്നാമത്തെ നീക്കമാണ് അങ്ങനെ 15 ആം നീക്കം വരെ നിങ്ങൾ വലത്തേക്ക് നീങ്ങി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ ഈ സ്ഥാനങ്ങളിലേക്ക് അഞ്ച് സ്ഥാനങ്ങളിൽ വലത്തേക്ക് നീങ്ങി പിന്നെ യാന്ത്രികമായി ഞാൻ ശേഷിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് മുകളിലേക്ക് നീങ്ങിയിരിക്കണം കാരണം എനിക്ക് കൃത്യമായി 5 ഉം കൃത്യമായി 5 വലതും 10 മുകളിലേക്കും ചെയ്യണം അതിനാൽ മൊത്തം 15 ൽ 5 അവകാശ നീക്കങ്ങളുടെ സ്ഥാനം ശരിയാക്കുക എന്നതാണ് ഞാൻ ഏത് പാതയിലൂടെ സഞ്ചരിക്കുന്നതെന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ ഞാൻ ചെയ്യേണ്ടത് അതിനാൽ 15 സ്ഥാനങ്ങളിൽ ഞാൻ 5 തിരഞ്ഞെടുക്കുന്നു ഇത് സാധാരണയായി 15 തിരഞ്ഞെടുക്കൽ 5 എന്ന് എഴുതുന്നു അതിനാൽ ഇത് വളരെ സ്റ്റാൻഡേർഡ് കോമ്പിനേറ്റോറിയൽ standard combinatorial കാര്യമാണ് 15 തിരഞ്ഞെടുക്കുക 5 n തിരഞ്ഞെടുക്കുക k എന്നത് ഫാക്റ്റോറിയലിനെ k ഫാക്റ്റോറിയൽ കൊണ്ട് n മൈനസ് കെ ഫാക്റ്റോറിയലായി വിഭജിക്കുന്നു അതിനാൽ 15 ഫാക്റ്റോറിയലിനെ 10 ഫാക്റ്റോറിയൽ തവണ 5 ഫാക്റ്റോറിയൽ കൊണ്ട് ഹരിക്കുന്നു ഇത് 3003 ആയി മാറുന്നു സ്ലൈഡ് സമയം കാണുക 0324 അതിനാൽ ഈ പ്രത്യേക ഗ്രിഡിനായി 3003 വഴികളുണ്ട് ഇപ്പോൾ തീർച്ചയായും ശരിയായ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുപകരം ഞാൻ മുകളിലേക്ക് നീങ്ങിയ 10 സ്ഥാനങ്ങൾ നിങ്ങളോട് പറയുമായിരുന്നു അത് ഞാൻ തുറന്ന 5 സ്ഥാനങ്ങൾ ഉപേക്ഷിക്കുന്നു വരെ പോകുന്നിടത്ത് n തിരഞ്ഞെടുക്കുക എനിക്ക് ശരിയായ നീക്കങ്ങളും n മുകളിലേക്കുള്ള നീക്കങ്ങളും നടത്തണം എനിക്ക് m പ്ലസ് n ന്റെ മൊത്തം നീക്കങ്ങൾ അല്ലെങ്കിൽ n പ്ലസ് n ന് പുറത്ത് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇവ രണ്ടും എനിക്ക് ഒരേ പദപ്രയോഗം നൽകും അതിനാലാണ് n തിരഞ്ഞെടുക്കുക k n തിരഞ്ഞെടുക്കുക k എന്നത് n ഫാക്റ്റോറിയൽ k ഫാക്റ്റോറിയൽ n മൈനസ് കെ അതിനാൽ നിങ്ങൾ k യും n മൈനസ് k യും കൈമാറ്റം ചെയ്താൽ നിങ്ങൾക്ക് ഒരേ പദപ്രയോഗം ലഭിക്കും എല്ലാം വളരെ നല്ലതാണ് എന്നാൽ ഇത് ഒരു തികഞ്ഞ ഗ്രിഡ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് ചില ഇന്റർസെക്ഷൻസ് ഉണ്ടെന്നു കരുതുക അവ തടഞ്ഞിരിക്കുന്നു അതിനാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ 2 4 ആയ ഈ വിഭജനം നോക്കിയാൽ അത് 1 2 തുടർന്ന് 1 2 3 4 ആണ് ഇത് സൂചിപ്പിക്കാൻ നമ്മൾ ഒരു കറുത്ത അടയാളം വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ പോകാൻ കഴിയില്ല അതിനാൽ 2 4 കടന്നുപോകുന്ന ഏതെങ്കിലും ഭാഗം 0 0 മുതൽ 5 10 വരെയുള്ള സാധുവായ പാതയിൽ കണക്കാക്കരുത് നമ്മൾ മുമ്പ് വരച്ച നീല പാത യഥാർത്ഥത്തിൽ ഈ ഇന്റർസെക്ഷനിലുടെ കടന്നുപോകുന്നു അതിനാൽ ഈ പാത മേലിൽ സാധുവായ പാതയല്ല ചുവന്ന പാത ശരിയാണ് കാരണം ഇത് അതിനെ മറികടക്കുന്നു പക്ഷേ മഞ്ഞ പാത നിർഭാഗ്യവശാൽ ഈ ഇന്റർസെക്ഷനിലുടെ കടന്നുപോകുന്നു നമ്മൾ ഇതുവരെ കണ്ട മൂന്ന് പാതകളിൽ രണ്ടെണ്ണം യഥാർത്ഥത്തിൽ കടന്നുപോകുന്നില്ല അതിനാൽ ഇപ്പോൾ ഉള്ള ചോദ്യം നമ്മൾ അവിടെ ഉണ്ടായിരുന്ന 3003 പാതകളിൽ 0 0 മുതൽ 5 10 വരെ ഈ ഇന്റർസെക്ഷനിലുടെ പോകാൻ നിങ്ങളെ അനുവദിച്ചില്ലെങ്കിൽ അവയിൽ എത്രയെണ്ണം ഇപ്പോഴും സാധുവാണ് ഇതിനു യഥാർത്ഥത്തിൽ ഒരു കോമ്പിനേറ്റോറിയൽ പരിഹാരവുമുണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ഇവിടെ നിന്ന് പോകാനും എനിക്ക് ഒരു ബ്ലോക്ക് ഇന്റർസെക്ഷൻ ഒഴിവാക്കണമെങ്കിൽ അതിലൂടെ കടന്നുപോകുന്നതിന് എത്ര വഴികളുണ്ടെന്ന് ഞാൻ നോക്കാം അവ നീക്കംചെയ്യുക അതിനാൽ ഞാൻ ചെയ്യുന്നത് നിലവിലുള്ള ബ്ലോക്ക് ഇന്റർസെക്ഷനിലുടെ കടന്നുപോകുന്ന ഓരോ പാതയും 0 0 മുതൽ 92 4 വരെയുള്ള പാതയാണ് അതിനുശേഷം 2 4 മുതൽ 5 10 കാരണം ഇത് 2 4 കടന്നുപോകുന്നു അതിനാൽ ഇത് 0 0 മുതൽ 2 4 വരെയുള്ള ഒരു ചെറിയ ഗ്രിഡായി നമുക്ക് കണക്കാക്കാം നമ്മൾ പരിഹരിച്ചാൽ ഈ പൊതുവായ m പ്ലസ് n m പ്ലസ് n തിരഞ്ഞെടുക്കുക n ആണ് അതിനാൽ എനിക്ക് 6 തിരഞ്ഞെടുക്കൽ 2 ലഭിക്കുന്നു 0 0 മുതൽ 2 4 വരെ 15 വഴികളുണ്ട് അതുപോലെ ഞാൻ ഈ ഗ്രിഡ് പരിഗണിക്കുകയാണെങ്കിൽ ഇത് 3 ഉം ഇത് 6 ഉം ആയതിനാൽ ഇത് 10 ഉം 5 ഉം ആയിരുന്നു ഞാൻ യഥാക്രമം 2 ഉം 4 ഉം ചെയ്തു 2 ന് ശേഷം ഇപ്പോഴും 3 തിരശ്ചീനമായി അവശേഷിക്കുന്നു 4 ന് ശേഷം ഇപ്പോഴും 6 ലംബമായി അവശേഷിക്കുന്നു അതിനാൽ ഇത് ഒരു പുതിയ 0 0 ൽ നിന്ന് 3 6 ലേക്ക് പോകുന്നത് പോലെയാണ് അവിടെ എനിക്ക് 6 പ്ലസ് 3 തിരഞ്ഞെടുക്കൽ 3 ലഭിക്കുന്നു ഇത് 84 ആയി മാറുന്നു ഇപ്പോൾ 2 മുതൽ 4 വരെ താഴേക്ക് വരുന്ന ഏത് ഭാഗവും അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്ന 2 മുതൽ 4 വരെ കടന്നുപോകുന്ന ഒരു സാധുവായ പാതയാണ് അതിനാൽ ഞാൻ ഈ രണ്ട് സംഖ്യകളെ ഗുണിച്ചാൽ 15 തവണ 84 എടുക്കണം വീണ്ടും 1260 ഇത് കടന്നുപോകുന്ന മൊത്തം പാതകളുടെ എണ്ണമാണ് 24 പക്ഷേ 24 കടന്നുപോകുന്ന പാതകൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല 2 മുതൽ 4 വരെ പോകുന്ന പാതകൾ അനുവദനീയമല്ലെന്ന് ഞാൻ പറയുന്നു അതിനാൽ ഈ ഭാഗങ്ങളെല്ലാം അസാധുവായി ഞാൻ കണക്കാക്കണം ഞാൻ യഥാർത്ഥ 3003 കുറയ്ക്കുക ഞാൻ 3003 എടുക്കുകയും 1260 കുറയ്ക്കുകയും എനിക്ക് 1743 ലഭിക്കുകയും ചെയ്യും ശരിയാണ് കോമ്പിനേറ്റോറിയൽ എക്സർസൈസ് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു ഒരു സ്ഥാനം തടഞ്ഞാൽ മുകളിൽ നിന്ന് വലതുവശത്ത് നൽകിയിരിക്കുന്ന പോയിന്റിലേക്ക് എത്ര പാതകളാണ് പോകുന്നതെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയും ഈ അപൂർണ്ണത കൂടുതൽ സങ്കീർണ്ണമായേക്കാം എനിക്ക് രണ്ട് സ്ഥാനങ്ങൾ തടയാൻ കഴിയുമായിരുന്നു ഈ സാഹചര്യത്തിൽ നീല മഞ്ഞ ചുവപ്പ് പാതകളെല്ലാം അസാധുവാണ് കാരണം ചുവന്ന പാതയും തടയപ്പെടും അതിനാൽ ഇപ്പോൾ ഞാൻ 24 44 എന്നിടത്തും തടഞ്ഞു രണ്ടിലൂടെ കടന്നുപോകുന്ന എല്ലാ പാതകളും 24 ഞാൻ ഇതിനകം ചെയ്തുകഴിഞ്ഞാൽ എനിക്ക് ഇത് കുറയ്ക്കാൻ കഴിയും അതുപോലെ എനിക്ക് 44 കടന്നുപോകുന്ന എല്ലാ പാതകളും കണക്കുകൂട്ടാൻ കഴിയും അവ കുറയ്ക്കാനും കഴിയും എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ മഞ്ഞ പാത രണ്ടുതവണ കുറയ്ക്കുന്നു കാരണം ഇത് കടന്നുപോകുന്ന പാതകളുടെ ഭാഗമാണ് 24 കൂടാതെ കടന്നുപോകുന്ന പാതകളുടെ ഭാഗ൦ 44 അതിനാൽ ആകസ്മികമായി ഇത് എന്റെ ആകെത്തുകയിൽ നിന്ന് രണ്ടുതവണ നീക്കംചെയ്തു അതിനാൽ ഞാൻ അത് തിരികെ വയ്ക്കണം നിങ്ങൾ ഇപ്പോൾ ആ പാതകൾ കണക്കുകൂട്ടണം അവ രണ്ട് ഇന്റർസെക്ഷനിലുടെയും കടന്നുപോകുകയും അവയെ തിരികെ ചേർക്കുകയും ചെയ്യുന്നു ഈ കോമ്പിനേറ്റോറിയലിനെ ഇന്ക്ലൂഷൻ എക്സ്ക്ലൂഷൻ എന്ന് വിളിക്കുന്നു നിങ്ങൾ വെൻ ഡയഗ്രം ചെയ്യുമ്പോൾ സെറ്റുകൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിത് കാണാം നിങ്ങൾക്ക് കണ്ടെത്തണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നു എത്ര ആളുകൾ ഉണ്ട് എത്ര സെറ്റുകൾക്ക് ഒരു ഘടകമുണ്ട് എത്ര സെറ്റുകൾക്ക് സ്ലൈഡ് സമയം 0833 കാണുക ഇന്റർസെക്ഷൻ നിങ്ങൾക്ക് എത്ര സെറ്റുകൾ ഉണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ ഇംഗ്ലീഷ് ചരിത്രം ഭൌതികശാസ്ത്രം എന്നിങ്ങനെ മൂന്ന് വിഷയങ്ങൾ എടുക്കുന്ന വിദ്യാർത്ഥികൾ തുടർന്ന് ധാരാളം പേർ ഇംഗ്ലീഷും ചരിത്രവും എടുക്കുന്നു പലരും ചരിത്രവും ഭൌതികശാസ്ത്രവും എടുക്കുന്നു അതിനാൽ നിങ്ങൾ അത്തരം എണ്ണം ചെയ്യുമ്പോൾ ഈ ഇന്ക്ലൂഷൻ എക്സ്ക്ലൂഷൻ നിങ്ങൾ കൃത്യമായി ചെയ്യും കൂടുതൽ കൂടുതൽ കുഴപ്പമുള്ള ഗ്രിഡുകൾ ലഭിക്കുമ്പോൾ ഈ വഴി പരിഹരിക്കുന്നതിന് ഈ കോമ്പിനേറ്റോറിയൽ ചോദ്യം കൂടുതൽ കൂടുതൽ സങ്കീർണ്ണമാകും അതിനാൽ ഒരു മികച്ച പരിഹാരം നോക്കാം നിങ്ങൾ ഊഹിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഇൻഡക്റ്റീവ് ഫോർമുലേഷനുകളും ആവർത്തന പ്രോഗ്രാമുകളും നമ്മൾ നോക്കുന്നതിനാൽ നമ്മൾ ശരിക്കും തിരയുന്നത് ഗ്രിഡ് പാതയുടെ ഇൻഡക്റ്റീവ് ഫോർമുലേഷനാണ് അതിനാൽ ഇനിപ്പറയുന്ന ചോദ്യം നമുക്ക് സ്വയം ചോദിക്കാം ഗ്രിഡിലെ i j എന്ന ഒരു പോയിന്റിലേക്ക് എങ്ങനെ എത്തിച്ചേരാം അതിനാൽ ഞാൻ അവകാശപ്പെടുന്നു നമ്മുടെ ഘടന നൽകിയാൽ അതായത് നമുക്ക് ശരിയായി പോകാം അല്ലെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോകാം എനിക്ക് ഇവിടെ വരാൻ രണ്ട് വഴികളേയുള്ളൂ ഒന്നുകിൽ എന്റെ ഇടതുവശത്തുള്ള അയൽക്കാരനിൽ നിന്ന് വലത്തേക്ക് വരാം അതിനാൽ i j മൈനസ് 1 മുതൽ എനിക്ക് ഒരു പടി ശരിയാക്കി i j അല്ലെങ്കിൽ i മൈനസ് 1 j എന്നതിലേക്ക് വരാം എനിക്ക് അവിടെ ഒരിക്കൽ പോകാം അതിനാൽ എനിക്ക് 00 ആരംഭിക്കുന്ന ഏതെങ്കിലും പാതകളുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും i j 1 വരുന്നു തുടർന്ന് ഒന്ന് കൃത്യമായി ഒരു പടി എടുക്കുന്നതിലൂടെ ആ പാത ഒരു i j ലേക്കുള്ള പാതയായി മാറുന്നു 00 മുതൽ i മൈനസ് i j 1 വരെയുള്ള എല്ലാ പാതകളും i j ലേക്ക് അദ്വിതീയമായ രീതിയിൽ വിപുലീകരിക്കാം അതുപോലെ 00 മുതൽ i 1 j വരെയുള്ള ഏത് പാതയും അദ്വിതീയമായ രീതിയിൽ വിപുലീകരിക്കാൻ കഴിയും രണ്ട് അയൽവാസികളിലേക്ക് വരുന്ന ചുമതല ഞാൻ കണക്കാക്കുന്നുവെങ്കിൽ നിലവിലെ നോഡിലെത്താൻ ആ പാതകളെല്ലാം വിപുലീകരിക്കാം എനിക്ക് ഇനിപ്പറയുന്ന രീതിയിൽ ഇൻഡക്റ്റീവ് ഫോർമുലേഷൻ ലഭിക്കുന്നു 00 മുതൽ നിലവിലെ പോയിന്റ് i j വരെയുള്ള പാതകളുടെ എണ്ണം സൂചിപ്പിക്കുന്നതിന് നമുക്ക് പാതകൾ i j എഴുതാം പ്രശ്നത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇൻഡക്റ്റീവ് വിശകലനത്തിൽ നിന്ന് നമ്മൾ ഇപ്പോൾ കണ്ടത് നിങ്ങൾ i j ആണെങ്കിൽ പാതകൾ ഇടത്തുനിന്നോ താഴെ നിന്നോ വരുന്നു i j ലേക്കുള്ള പാതകളാണ് i മൈനസ് 1 ജെ ലേക്കുള്ള പാതകളുടെ ആകെത്തുക i j മൈനസ് 1 അതിനാൽ തീർച്ചയായും ചില അതിർത്തി വ്യവസ്ഥകളുണ്ട് നിങ്ങൾ ഗ്രിഡിലേക്ക് നോക്കുകയാണെങ്കിൽ പൊതുവേ നമ്മൾ ഇടത് നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് താഴത്തെ വരി ആരംഭിക്കാം നമ്മൾ താഴത്തെ വരി ആരംഭിക്കുന്നു വലത് അപ്പോൾ നമുക്കറിയാം ഇത് 00 എന്ന ഫോമിലാണെന്ന് തുടർന്ന് 10 എന്നിങ്ങനെ 50 വരെ അതിനാൽ i 0 ഫോമിന്റെ എന്തും അതിന്റെ മൂല്യം ഇടതുഭാഗത്ത് നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ കാരണം ഇടതുവശത്ത് നിന്ന് അനുബന്ധ വരിയൊന്നുമില്ല അതുപോലെ ഇടത് നിരയിൽ നിന്ന് ഇതിൽ നിന്ന് 00 01 എന്നിങ്ങനെ 015 വരെ ഇപ്പോൾ ഇടതുഭാഗത്ത് നിന്ന് ഒന്നുമില്ല ചുവടെയുള്ള വരിയിൽ നിന്ന് എനിക്ക് അത് ജെ മൈനസ് 1 ൽ നിന്ന് മാത്രമേ ലഭിക്കൂ അവസാനമായി പ്രാരംഭ സാഹചര്യങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ സ്വയം ചോദിക്കണം ഞാൻ 00 എന്ന സ്ഥലത്താണെങ്കിൽ 00 പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്ര വഴികളുണ്ട് ഇതൊരു നിസ്സാര പാതയാണ് ഒരേയൊരു വഴി മാത്രമേയുള്ളൂ അവിടെ തന്നെ തുടരുക അത് 0 അല്ല എന്നത് പ്രധാനമാണ് കാരണം ഇത് 0 ആണെങ്കിൽ എല്ലായിടത്തും നിങ്ങൾ കാര്യങ്ങൾ ചേർക്കുന്നു ഒന്നും വരില്ല നിങ്ങൾക്ക് പാതകളൊന്നും ലഭിക്കില്ല അതിനാൽ 00 നിന്ന് തന്നിലേക്ക് കൃത്യമായി ഒരു പാത ഉണ്ടെന്നത് പ്രധാനമാണ് ഈ സജ്ജീകരണത്തിലെ ദ്വാരങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും ഒരു ഘട്ടത്തിൽ ഒരു ദ്വാരം ഉണ്ടാകുമ്പോഴെല്ലാം റഫർ സ്ലൈഡ് സമയം 1152 0 ആയിരിക്കുമെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു എന്നത് വളരെ എളുപ്പമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ദ്വാരം ഉണ്ടെങ്കിൽ മുകളിലോ താഴെയോ പരിഗണിക്കാതെ ഈ കാര്യം 0 സംഭാവന ചെയ്യാൻ പോകുന്നു ഞാൻ വന്നാൽ എനിക്ക് ഇവിടെ നിന്നും എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ അത് അവഗണിച്ച് ഇത് 0 ആണെന്ന് പറയും അതുപോലെ ഞാൻ കാര്യം കണക്കുകൂട്ടുമ്പോൾ ഇടത് വശത്ത് നിന്ന് x മൂല്യം വരും ഇത് x പ്ലസ് 0 മാത്രമായിരിക്കും അതുപോലെ തന്നെ ഇവിടെ നിന്ന് താഴെ നിന്ന് എന്തെങ്കിലും വരും y എന്ന് പറയുക ഇത് 0 y ആയിരിക്കും അതിനാൽ ഏത് ദ്വാരത്തിനും 0 ത്തിന് തുല്യമായ ij ഡിക്ലറേഷൻ പാതകളിലൂടെ മാത്രമേ ഉണ്ടാകൂ കാരണം അതിലൂടെ ഒന്നും കടന്നുപോകാൻ കഴിയില്ല ഇത് സ്വയമേവ അയൽവാസികളിലേക്ക് ശരിയായി പ്രചരിപ്പിക്കും ശേഷിക്കുന്ന ഇൻഡക്റ്റീവ് സമയം 1227 കാണുക മുമ്പത്തെപ്പോലെ തന്നെ അതിനാൽ ഇത് ഒരു ദ്വാരമല്ലെങ്കിൽ അത് അതിന്റെ രണ്ട് അയൽവാസികളെ ആശ്രയിച്ചിരിക്കുന്നു അതിനുശേഷം നമുക്ക് താഴത്തെ വരി ഇടത് നിരയും ഉത്ഭവം അടിസ്ഥാന കേസുകളുമാണ് ഈ കണക്കുകൂട്ടലിലെ ബുദ്ധിമുട്ട് ഫിബൊനാച്ചിയുമായി ബന്ധപ്പെട്ടതിന് തുല്യമാണ് അതായത് എനിക്ക് ഒരു പ്രത്യേക കണക്കുകൂട്ടൽ ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ ഒരു ആവർത്തന കണക്കുകൂട്ടൽ 510 ത്തിൽ നിന്ന് ആരംഭിക്കുന്നുവെന്ന് കരുതുക ഇത് 410 59 ആവശ്യപ്പെടും ഇപ്പോൾ ഇവ രണ്ടും 49 ആവശ്യപ്പെടും അതിനാൽ 49 ഈ പാതകളുടെ പ്രവർത്തനം ഞാൻ ആവർത്തിച്ച് വിലയിരുത്തുന്നുവെങ്കിൽ അത് മടങ്ങിവരുന്ന രീതി ഇൻഡക്റ്റീവ് നിർവചനം ഇത് 49 ന്റെ കോളിംഗ് പാതകളെ ഇതിൽ നിന്ന് രണ്ടുതവണയെങ്കിലും അവസാനിപ്പിക്കും സമയം 13 12 കാണുക ഉടനീളം സംഭവിക്കുകയും പാതകളിലേക്കുള്ള കോളുകളുടെ എക്സ്പോണൻസിയേഷൻ നമ്പർ നമുക്ക് ലഭിക്കും നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ നമുക്ക് രണ്ട് സാങ്കേതികവിദ്യകളുണ്ട് ഒന്ന് മെമ്മോയിസേഷനാണ് അവിടെ നമുക്ക് ഒരിക്കലും i j എന്ന പാതകളില്ലെന്ന് ഉറപ്പാക്കുന്നു i j എന്നിവയുടെ ഒരേ മൂല്യം ഒന്നിലധികം തവണ മറ്റൊരു മാർഗ്ഗം ഉപപ്രശ്നങ്ങൾ മുൻകൂട്ടി അറിയുക അവ എങ്ങനെ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നുവെന്ന് മനസിലാക്കുക എന്നിട്ട് അനുയോജ്യമായ ക്രമത്തിൽ നേരിട്ട് ആവർത്തനമായി പരിഹരിക്കുക ഇതിനെയാണ് നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്നത് ഗ്രിഡിൽ നമ്മൾ എങ്ങനെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കും ഇതാണ് 24 44 എന്നീ രണ്ട് ദ്വാരങ്ങളുള്ള നമ്മുടെ ഗ്രിഡ് ആദ്യത്തേത് ഡിപൻഡൻസികളുടെ DAG ഘടന തിരിച്ചറിയുക എന്നതാണ് നമുക്കറിയാം ഓരോ i j അത് ഇടതും താഴെയുമുള്ള അയൽവാസിയെ ആശ്രയിച്ചിരിക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ DAG ചെയ്യുന്നത് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഇവ ഇടതും താഴെയുമുള്ള രണ്ട് മൂല്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുവെങ്കിൽ ഇടത് നിന്ന് ഈ നോഡിലേക്കും ചുവടെ നിന്ന് ഈ നോഡിലേക്കും നമ്മൾ ഒരു എഡ്ജ് വരയ്ക്കുന്നു Refer Slide time 1410 അപ്പോൾ ഇതാണ് DAG ഘടന സമയം കാണുക 1411 DAG ഘടന DAG ഘടന സ്വാഭാവികമായും ചുവടെ ഇടത് നിന്ന് മുകളിലേക്ക് വലത്തേക്ക് പോകുന്നു അതിനാൽ ഡിഗ്രി നോഡിലെ ഒരേയൊരു 0 ഇതാണ് ഈ DAG ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് നേരിട്ട് ഗ്രിഡ് പാതകളിലേക്ക് ഈ ഗ്രിഡിന്റെ ഒരു കണക്കുകൂട്ടൽ നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുക്ക് ആരംഭിക്കാൻ കഴിയുന്ന ഒരേയൊരു സ്ഥലം 00 ആണ് നമ്മൾ 00 ൽ ആരംഭിച്ച് അവിടെ മൂല്യം പൂരിപ്പിക്കുന്നു അത് 1 ആണ് ഇപ്പോൾ നമുക്ക് രണ്ട് സാധ്യതകളുണ്ടെന്ന് നിരീക്ഷിക്കുന്നു നമുക്ക് വലതുവശത്തേക്ക് പോകാം അല്ലെങ്കിൽ മുകളിലേക്ക് പോകാം കാരണം ഈ രണ്ട് ഡിപൻഡൻസികളും ഇപ്പോൾ നീക്കംചെയ്തു നമുക്ക് വരിവരിയായി പോകാം നമ്മൾ ഈ മൂല്യം ചെയ്യുകയാണെങ്കിൽ യാന്ത്രികമായി ഈ ഡിപൻഡൻസി പോകുന്നു ഇത് എപ്പോൾ പോകും അപ്പോൾ നമുക്ക് ഈ മൂല്യം ചെയ്യാൻ കഴിയും അങ്ങനെ ഈ മൂല്യവും ചെയ്യാനാകും നമുക്ക് താഴത്തെ വരി മുഴുവൻ കണക്കുകൂട്ടാൻ കഴിയും ഇവയെല്ലാം ഇടത് വശത്ത് നിന്ന് നമ്മുടെ അടിസ്ഥാന കേസ് ഉപയോഗിച്ച് വലതുവശത്ത് അവകാശപ്പെട്ടതാണ് അതിനാൽ ഇത് വളരെ വ്യക്തമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവബോധപരമായി ഈ സ്ഥലങ്ങളിലേതെങ്കിലും ലഭിക്കാൻ ഒരേയൊരു മാർഗ്ഗമേയുള്ളൂ അത് ഇടത്തുനിന്ന് വലത്തോട്ട് നേരെ പോകുക ഒരു വ്യതിയാനവും സാധ്യമല്ല ചുവടെയുള്ള നോഡിലെ ഓരോ നോഡിനും ഒരു പാത മാത്രമേയുള്ളൂ ഇപ്പോൾ നമുക്ക് ഒരു വരി മുകളിലേക്ക് നീക്കാൻ കഴിയും രണ്ടാമത്തെ വരിയിൽ നിന്നുള്ള ആദ്യ വരിയിലെ ഈ നോഡ് ഇപ്പോൾ ലഭ്യമാണ് ഇത് ഇതിനകം തന്നെ ലഭ്യമാണ് പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്താൽ നമുക്കും അത് ചെയ്യാൻ കഴിയും സമയം കാണുക 1522 നോഡും അതിന്റെ വലതുവശത്തും മറ്റും അതിനാൽ രണ്ടാമത്തെ വരി മുഴുവൻ പൂരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും ഒപ്പം ഓരോ ഘട്ടത്തിലും കൂട്ടി ചേർക്കുന്നു അതിനാൽ 2 ഉം 2 പ്ലസ് 1 എന്നത് 2 ഉം 1 പ്ലസ് 3 എന്നത് 4 ഉം അങ്ങനെ തന്നെ അതുപോലെ നമുക്ക് അടുത്ത ദ്വാരം ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് 6 പ്ലസ് 4 10 ഉം മറ്റും അതുപോലെ നിങ്ങൾക്ക് അടുത്ത വരി ചെയ്യാൻ കഴിയും 20 പ്ലസ് 15 35 ആണ് ഇപ്പോൾ നമ്മൾ ദ്വാരങ്ങളിലേക്ക് വരുന്നു നമ്മൾ പറഞ്ഞ ദ്വാരങ്ങളിൽ ചുവടെ നിന്ന് വരുന്നതെന്താണെങ്കിലും ഇവ 0 ആയിരിക്കും ചുവടെ നിന്ന് 10 വരുന്നുണ്ടെങ്കിലും ഈ ആദ്യത്തെ ദ്വാരം 0 താഴെ നിന്ന് 35 ആയിരിക്കണം ദ്വാരം 0 ആയിരിക്കണം അതിനാൽ നമ്മൾ ഈ വരി കൃത്യമായി മുമ്പത്തെപ്പോലെ തന്നെ കണക്കുകൂട്ടുന്നു അതിനെ 5 പ്ലസ് 10 ആയി കണക്കാക്കുന്നില്ല നമ്മൾ 0 ഇട്ടു ഈ ദ്വാരത്തെ 20 പ്ലസ് 35 ആയി കണക്കാക്കുന്നില്ല 0 ഇടുന്നു ഇപ്പോൾ അടുത്ത വരിയിലേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ 0 0 മാത്രമേ സംഭാവന ചെയ്യുന്നുള്ളൂ അതിന് മുകളിലൂടെ ഇതിലൂടെ ഒരു പാതയും വരാൻ കഴിയാത്തതിനാൽ ഈ ദിശ ഇവിടെ വരുന്ന പാതകളുടെ എണ്ണം ഇടത് വശത്ത് നിന്ന് 6 മാത്രം വരുന്നു ഇവിടെ വരുന്ന പാതകളുടെ എണ്ണം ഇടത് വശത്ത് നിന്ന് 26 എണ്ണം മാത്രമാണ് ഈ സ്ഥാനത്തേക്ക് വരുന്ന പാതകളുടെ എണ്ണം അവിടെ നിന്ന് വരാൻ കഴിഞ്ഞില്ല അതിനാൽ ഈ 20 അവിടെ പകർത്തി ഈ 56 പകർത്തി നമുക്ക് ഇത് വരിവരിയായി ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഇതുപോലുള്ള ഓരോ വരിയും പകർത്തിക്കൊണ്ട് ഇടത്തോട്ടും താഴെയുമായി മൂല്യങ്ങൾ ചേർത്ത് കണക്കാക്കാൻ കഴിയുമെങ്കിൽ ഈ രണ്ട് തടസ്സങ്ങളോടെ 1363 പാതകളുണ്ടെന്ന് നമ്മൾ കണ്ടെത്തും ഈ തടസ്സങ്ങൾ ചലിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കണക്കുകൂട്ടലുകൾ വീണ്ടും ചെയ്യാൻ കഴിയും അത് കാര്യക്ഷമമായിരിക്കും ഈ ഉൾപ്പെടുത്തലിനെയും ഒഴിവാക്കലിനെയും കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ടതില്ല അതിനാൽ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള ഒരു മാർഗമാണിത് എന്നാൽ ഏതെങ്കിലും ടോപ്പോളജിക്കൽ സോർട്ട് പ്രവർത്തിക്കുമെന്ന് ഓർക്കുക അതിനാൽ പകരം 1 എന്ന് ആരംഭിച്ച് നിര പ്രകാരം നിരയിലേക്ക് പോകാം നമുക്ക് മുകളിലേക്ക് പോയി അത് പൂരിപ്പിക്കാം തുടർന്ന് ആദ്യത്തെ നിര മുഴുവൻ പൂരിപ്പിക്കാം ആദ്യ നിര വീണ്ടും ഒരു തവണ മാത്രമേ ഉണ്ടാകൂ കാരണം ഇത് ചെയ്യുന്നതിന് ഒരേയൊരു മാർഗ്ഗമേയുള്ളൂ ആദ്യ നിര പൂരിപ്പിച്ച ശേഷം ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ നിര പൂരിപ്പിക്കാം തുടർന്ന് നിങ്ങൾക്ക് മൂന്നാമത്തെ നിരയും നാലാമത്തെ നിരയും പൂരിപ്പിക്കാൻ കഴിയും വ്യക്തമായും ഇത് മൂല്യങ്ങൾ കണക്കാക്കുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം മാത്രമാണ് മൂല്യം മാറാൻ പോകുന്നു അതിനാൽ ഓരോ ഘട്ടത്തിലും ഒരേ മൂല്യങ്ങളുമായി അവസാനിക്കണം അവസാനമായി നിങ്ങൾക്ക് ഇത് DAG വഴി ചെയ്യാനും കഴിയും അതിനാൽ ശ്രദ്ധിക്കുക ഞാൻ ഇത് ചെയ്യുമ്പോൾ ഈ രണ്ട് പോയിന്റുകളും ഇപ്പോൾ 0 ഉം ഡിഗ്രി നോഡുകളുമാണ് എനിക്ക് ഇവ രണ്ടും ചെയ്യാൻ കഴിയും ഇപ്പോൾ എനിക്ക് ഈ മൂന്ന് പോയിന്റുകൾ ഉണ്ട് 0 ഉം ഡിഗ്രി നോഡും അതിനാൽ ഇവ മൂന്നും എനിക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ എനിക്ക് ഈ നാല് പോയിന്റുകൾ ഉണ്ട് 0 ഉം ഡിഗ്രി നോഡും അതിനാൽ എനിക്ക് ഇവയെല്ലാം ചെയ്യാൻ കഴിയും ഇത് ഊന്നിപ്പറയാൻ മാത്രമാണ് ടോപ്പോളജിക്കൽ സോർട്ട് തിരഞ്ഞെടുക്കുന്നത് പൂർണ്ണമായും നിങ്ങളുടേതാണ് മിക്കപ്പോഴും ഇത്തരത്തിലുള്ള ഡയഗണൽ കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നത് കൂടുതൽ സങ്കീർണ്ണമാണ് സാധാരണയായി ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത് ഒരു വരിയും നിരയുമാണ് എന്നാൽ അടിസ്ഥാന മൂല്യങ്ങളുടെ ഏതെങ്കിലും ടോപ്പോളജിക്കൽ ക്രമം കണക്കുകൂട്ടാൻ ഉപയോഗിക്കാം നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾ ഒരു നോഡ് വരുമ്പോൾ നിങ്ങൾ കണക്കുകൂട്ടാൻ ആഗ്രഹിക്കുന്ന മൂല്യം അതിന്റെ എല്ലാ ഡിപൻഡൻസികളും ഇതിനകം തന്നെ കണക്കുകൂട്ടിയിരിക്കണം അതാണ് ഈ DAGS ഘടന നിങ്ങൾക്ക് നൽകുന്നത് അതിനാൽ ഉപ പ്രശ്നങ്ങൾ ഒരു DAG രൂപപ്പെടുത്തുന്നു മാത്രമല്ല പ്രോഗ്രാമിംഗ് ചെയ്യുന്നതുവരെ നിങ്ങൾ DAG വഴി ഏറ്റവും ഫലപ്രദമായി നാവിഗേറ്റു ചെയ്യേണ്ടതുണ്ട് ഇത് സാധാരണയായി ഒരു ടേബിളിലെ ഒരു വരിയോ നിരയോ ആണ് പക്ഷേ ഇത് ഡയഗണൽ ആകാം അവസാനമായി നമ്മൾ ഉപസംഹരിക്കുന്നതിനുമുമ്പ് മേമ്മോയിസേഷേനും ഡൈനാമിക് പ്രോഗ്രാമിംഗും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ഒരു പ്രബോധനാത്മക ചിത്രം നോക്കാം അതിർത്തിയിൽ ഒരു കൂട്ടം ദ്വാരങ്ങളുണ്ടെങ്കിൽ അവബോധപൂർവ്വം എന്താണ് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് ആരംഭിച്ച് ഇങ്ങനെയെങ്കിലും പോയാൽ ഞാൻ കുടുങ്ങും അതിനാൽ ഞാൻ അവിടെ നിന്ന് എന്റെ മേമ്മോയിസേഷേൻ ആരംഭിക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഇത് 0 കാണാനാണ് പോകുന്നത് ഈ മൂല്യങ്ങളെല്ലാം 0 ആയിരിക്കും കൂടാതെ മെമ്മോയിസേഷൻ ഇവയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പോകുന്നില്ല മെമ്മോയിസേഷൻ ഈ ബാഹ്യ അതിർത്തിയിലൂടെ മാത്രമേ കാണാൻ പോകുകയുള്ളൂവെന്ന് ഞാൻ അവകാശപ്പെടുന്നു ഈ ഗ്രിഡ് പോയിന്റുകൾ മാത്രമേ മെമ്മോയിസേഷൻ കണക്കാക്കൂ അതേസമയം ഞാൻ ഡൈനാമിക് പ്രോഗ്രാമിംഗ് നടത്തുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ആരംഭിക്കുകയും അന്ധമായി പൂരിപ്പിക്കുകയും ചെയ്യും ഞാൻ 0 ൽ എത്തുമ്പോൾ മാത്രം എനിക്ക് മനസ്സിലാകുകയുള്ളൂ ഗ്രിഡിനുള്ളിൽ മൂല്യങ്ങൾ കണക്കുകൂട്ടുന്നതാണെന്ന് ഈ ഗ്രിഡിൽ ഷേഡുള്ള ഈ പ്രദേശം മുഴുവനും ഉണ്ട് അവയുടെ മൂല്യങ്ങൾ ആവശ്യമില്ല കാരണം അവയ്ക്ക് താഴെ നിന്ന് മുകളിലേക്ക് ഒരു പാതയിലേക്കും സംഭാവന ചെയ്യാൻ കഴിയില്ല കാരണം അവയിലൂടെ കടന്നുപോകുന്ന ഓരോ പാതയും ഈ ദ്വാരങ്ങളിലൊന്നിൽ നിന്ന് നിങ്ങൾ തടയും അതേസമയം ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഇപ്പോൾ ഈ പോയിന്റുകളുടെ മൂല്യങ്ങൾ അവ ഉപയോഗശൂന്യമായ മേമ്മോയിസേഷേൻ ആണെങ്കിലും അന്ധമായി കണക്കുകൂട്ടാൻ പോകുന്നു കാരണം അത് ആവശ്യാനുസരണം മാത്രം കണക്കുകൂട്ടുന്നതിനാൽ അത് ഒരിക്കലും ഈ പോയിന്റുകളിൽ എത്തുകയില്ല മെമ്മോ ടേബിളിൽ ലീനിയെർ എൻട്രികൾ ഉണ്ടാകും ഇതിന് 2 എം പ്ലസ് 2 എൻ എൻട്രികൾ ഉണ്ടാകും ഇതിന് ഈ ഗ്രിഡിന്റെ ബാഹ്യ അതിർത്തി മാത്രമേ ഉണ്ടാകൂ സമയം കാണുക 1946 അതിനാൽ രണ്ട് അളവുകളുടെ അടിസ്ഥാനത്തിൽ ഇതിന് എൻട്രികളുടെ ലീനിയെർ എണ്ണം ഉണ്ടാകും അതേസമയം ഡൈനാമിക് പ്രോഗ്രാമിംഗിന് ഒരു എൻട്രിക്ക് n ഇരട്ടി ഉണ്ടായിരിക്കും മിക്ക ഗ്രിഡ് പോയിന്റുകളും ടേബിളിൽ കണക്കാക്കും അവയിൽ മിക്കതും ഉപയോഗശൂന്യമാണ് ഒരർത്ഥത്തിൽ ഈ ഉദാഹരണത്തിൽ ഡൈനാമിക് പ്രോഗ്രാമിംഗ് മൂല്യങ്ങൾ പാഴാക്കുന്നു ഇത് അല്പം വിശകലനം ചെയ്താൽ നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാനാവില്ല കാരണം ഇത് എല്ലാ ഉപപ്രശ്നങ്ങളെയും ഉത്ഭവത്തിൽ നിന്ന് മുകളിലേക്കുള്ള വഴിയിൽ അന്ധമായി കണക്കുകൂട്ടുന്നു എന്നിരുന്നാലും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആവർത്തനമാണ് ഇത് ലളിതമായിരിക്കും മേമ്മോയിസേഷേൻ ആവർത്തനമായിരിക്കും ഒരേ ആവർത്തന കോൾ രണ്ടുതവണ വിളിക്കാതിരിക്കാൻ ഇത് ഒപ്റ്റിമൈസ് ചെയ്യാൻ പോകുന്നു എന്നിരുന്നാലും ഇത് ആവർത്തനമാണ് മാത്രമല്ല ഒരു പ്രോഗ്രാമിംഗ് ഭാഷയിലെ എക്സിക്യൂഷന്റെ കാര്യത്തിൽ ആവർത്തനത്തിന് ചിലവ് വഹിക്കുന്നു ദ്വാരങ്ങൾ മോശമായ രീതിയിൽ വിതരണം ചെയ്താൽ ഇത് പാഴായ ഡൈനാമിക് പ്രോഗ്രാമിംഗ് സ്ട്രാറ്റജി ആണെന്ന് തോന്നുo യഥാർത്ഥത്തിൽ ഇത് പ്രശ്നമല്ല ഇത് സാധാരണയായി മാറുന്നു ഒരു ഡൈനാമിക് പ്രോഗ്രാമിംഗ് നടപ്പിലാക്കൽ സാധാരണയായി ഒരു മെമ്മോയിസേഷൻ നടപ്പാക്കലിനേക്കാൾ കൂടുതൽ കാര്യക്ഷമമായിരിക്കും അതിനാൽ ഒരു ഇൻഡക്റ്റീവ് നിർവചനത്തിൽ നിന്ന് നേരിട്ട് ഒരു ആവർത്തന പ്രോഗ്രാമിലേക്ക് പോകാൻ കഴിയുമെന്ന് നമുക്കറിയാമെന്നതിനാൽ മെമ്മോയിസ്ഡ് നടപ്പാക്കൽ എളുപ്പമാണ് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടു ഒരു സാധാരണ സൂത്രവാക്യം ഒരു കുറിപ്പ് ഏതെങ്കിലും ആവർത്തന പ്രോഗ്രാം മെമ്മോയിസ് ചെയ്യാൻ നിങ്ങൾ കുറച്ച് ഘട്ടങ്ങൾ ഉൾപ്പെടുത്തണം ടേബിളിൽ നോക്കുക ടേബിളിനു ഫീഡ് ചെയുക അതിനാൽ ഒരു മെമ്മോയിസ്ഡ് നടപ്പാക്കൽ ലഭിക്കുന്നത് വളരെ എളുപ്പമാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് നടപ്പിലാക്കുന്നതിന് ഉപ പ്രശ്നങ്ങളെക്കുറിച്ച് ചില വിശകലനങ്ങളും ഉപ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനുള്ള ഒരു നല്ല ക്രമം കണ്ടെത്തേണ്ടതുണ്ട് ഇത് കൂടുതൽ ജോലിയാണ് എന്നാൽ ഈ അധിക ജോലി സാധാരണയായി ഫലം ചെയ്യും കാരണം നിങ്ങൾക്ക് ഒരു ആവർത്തന പ്രശ്നത്തേക്കാൾ എല്ലാ ഉപ പ്രശ്നങ്ങളുടെയും സംവേദനാത്മക കണക്കുകൂട്ടൽ ലഭിക്കും